സുപ്രഭാതം പത്താമത്തെ ആഴ്ചയിലേയ്ക്ക് സ്വാഗതം നമ്മൾ NOOC കോഴ്സ്ൻറെ അവസാന ഭാഗത്തിൽ ആണ് ഇപ്പോൾ ഏതാണ്ട് 75 ശതമാനം പാഠഭാഗങ്ങളും നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു വ്യാപ്തി അനുസരിച്ച് പറയുകയാണെങ്കിൽ 80 ശതമാനത്തിലേറെ പഠിച്ചുകഴിഞ്ഞു എന്നാലും എനിക്കറിയാം കോഴ്സിന് ആകെമൊത്തം ഉള്ള വിഭാഗങ്ങൾ എടുത്തുനോക്കിയാൽ നാലിലൊന്ന് ഭാഗം കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട് കഴിഞ്ഞ മൂന്ന് ആഴ്ചകളിൽ നമ്മൾ തെർമോഡൈനാമിക്സ്വിൻറെ വിവിധതരം ആപ്ലിക്കേഷനുകളും ചർച്ച ചെയ്യുകയുണ്ടായി കാരണം നമ്മൾ സംസാരിക്കുന്നത് അപ്ലൈഡ് തെർമോഡൈനാമിക്സ് എന്ന കോഴ്സിനെ കുറിച്ചാണ് തെർമോഡൈനാമിക്സ്ൻറെ അടിസ്ഥാനപരമായ തത്വങ്ങളെ കുറിച്ചുള്ള വേഗത്തിലുള്ള ഒരു അവലോകനത്തിൽ തുടങ്ങി ഏതാനും ചില പ്രാരംഭ ആശയങ്ങൾ ചർച്ച ചെയ്ത നമ്മൾ തെർമോഡൈനാമിക്സ് സിസ്റ്റങ്ങളുടെ സ്വഭാവവിശേഷങ്ങൾ വിലയിരുത്തുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ചും ചർച്ച ചെയ്തു പിന്നീട് നമ്മൾ വിവിധതരം പവർ സൈക്കിളുകള കുറിച്ചും ചർച്ച ചെയ്തു ഗ്യാസ് പവർ സൈക്കിൾ വേപ്പർ പവർ സൈക്കിൾ എന്നിവ ഗ്യാസ് പവർ സൈക്കിളിൻറെ കാര്യത്തിൽ ആണെങ്കിൽ നമ്മൾ റെസിപ്രോകേയ്റ്റിംഗ് ഉപകരണങ്ങൾക്ക് ഉതകുന്നതായ ഗ്യാസ് പവർസൈക്കിൾളുകളെ കുറിച്ചും ചർച്ച ചെയ്തു റോട്ടറി ഉപകരണങ്ങൾക്ക് ഉതകുന്ന ഗ്യാസ് പവർ സൈക്കിളുകളെ കുറിച്ചും ചർച്ച ചെയ്തു ഇനി സ്റ്റീം പവർ സൈക്കിൾ അല്ലെങ്കിൽ വേപ്പർ പവർ സൈക്കിളിൻറെ കാര്യമെടുത്താൽ നമ്മൾ പ്രാഥമികമായും റാങ്കൈന് സൈക്കിൾ ചർച്ച ചെയ്തു അതു റോട്ടറി ഉപകരണം ഉള്ള ഒരുതരം സൈക്കിൾ ആണ് പിന്നെ നമ്മൾ കമ്പൈൻഡ് സൈക്കിളിനെ കുറിച്ച് ചർച്ച ചെയ്തു ഇങ്ങനെ നമ്മൾ ഊർജ്ജം ഉത്പാദിപ്പിക്കുന്ന സൈക്കിളുകളെ കുറിച്ച് ചർച്ച ചെയ്തതിനുശേഷം ഊർജ്ജം വലിച്ചെടുക്കുന്ന സൈക്കിളുകളെ കുറിച്ചും ചർച്ച ചെയ്തു ഇത് അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സൈക്കിൾ ആണ് ഇത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തിരുന്നു അതുകൊണ്ട് ഇതിനോടകം പലതരത്തിലുള്ള റഫ്രിജറേഷൻ സൈക്കിളുകൾ കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടെന്നിരിക്കെ വിശേഷിച്ച് വേപ്പർ കംപ്രഷൻ വേപ്പർ അബ്സോർപ്പ്ഷൻ റഫ്രിജറേഷൻ സൈക്കിളുകൾ എന്നിവയെ കുറിച്ച് ഒരു നല്ല ധാരണ ഉണ്ടെന്നിരിക്കെ നമ്മുടെ അടുത്ത പടി എയർകണ്ടീഷൻങ്ങിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഒരുപക്ഷേ ശീതീകരണത്തിൻറെ പ്രായോഗികതലത്തിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് എയർ കണ്ടീഷനിങ് എന്നുള്ളത് എന്നാൽ ശീതികരണവും എയർകണ്ടീഷനിങ്ങും തമ്മിൽ അടിസ്ഥാനപരമായ ഒരു വ്യത്യാസമുണ്ട് കഴിഞ്ഞ ആഴ്ചയിലെ ഒന്നാമത്തെ സ്ലൈഡിൽ ഞാൻ നിർണയിച്ചത് പോലെ റഫ്രിജറേഷൻൻറെ പ്രാഥമിക ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒരു തലത്തിലെ അല്ലെങ്കിൽ വസ്തുവിലെ താപനില ചുറ്റുപാടുമുള്ള താപനിലയെകാൾ താഴ്ത്തുക എന്നുള്ളതാണ് കുറഞ്ഞ താപനില നിലനിർത്തുക എന്നതാണ് ഇപ്പോൾ എയർ കണ്ടീഷനിങ്ലും നമ്മൾ യഥാർത്ഥത്തിൽ ശ്രമിക്കുന്നത് താപനില കുറയ്ക്കാൻ ആണ് വാസ്തവത്തിൽ നിങ്ങൾ നമ്മുടെ രാജ്യത്തിൻറെ വീക്ഷണകോണിൽ നിന്നും ചിന്തിക്കുകയാണെങ്കിൽ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ പ്രാഥമിക ഉദ്ദേശം താപനില കുറക്കുക എന്നുള്ളതാണ് എന്നാൽ എപ്പോഴും അത് അങ്ങനെ ആവണമെന്നില്ല ഉദാഹരണത്തിന് നിങ്ങൾ തണുപ്പുള്ള പാശ്ചാത്യ രാജ്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ എയർ കണ്ടീഷനിംഗ് പ്രാഥമികമായി ഉദ്ദേശം സാധാരണയായി മുറിക്കുള്ളിലെ ചൂട് നിലനിർത്തുവാനും പുറത്തുള്ളതിനേക്കാൾ അകത്തെ താപനില കൂട്ടി നിർത്തുന്നതിനും വേണ്ടിയാണ് അതുകൊണ്ട് എയർകണ്ടീഷനിങ്ഇൻറെ സാധ്യത തണുപ്പിക്കുക എന്നുള്ളത്മാത്രമല്ല ഊഷ്മാവ് നിലനിർത്തുക എന്നുള്ള ഒരു വശവും അതിലുണ്ട് താപനില നിയന്ത്രിക്കുക എന്നത് മാത്രമല്ല ഉദ്ദേശം മറിച്ച് മുറിക്കുള്ളിലെ വായുവിലെ ഈർപ്പം നിയന്ത്രിക്കുക എന്നുള്ളതും എയർ കണ്ടീഷനിംഗ്ഇൽ പെടും ഉദാഹരണത്തിന് ഈർപ്പം അഥവാ സാന്ദ്രത ഏറെയുള്ള പ്രദേശങ്ങളിൽ ഉദാഹരണത്തിന് നമ്മൾ ഈ വീഡിയോ ഇന്ത്യയുടെ കിഴക്കൻ പ്രദേശത്തുള്ള ഗുവാഹത്തിയിലെ ഐഐടിയിൽ ഇരുന്നുകൊണ്ട് എടുക്കുന്നു ഈ തലത്തിൽ സാധാരണയായി ഈർപ്പം കൂടുതലാണ് ഈ തലത്തിൽ ഒരു എയർകണ്ടീഷൻ ആയ ഇടത്തിൽ അന്തരീക്ഷത്തിലെ ഈർപ്പം കുറയ്ക്കുവാനും അങ്ങനെ ഈർപ്പത്തിൻറെ അളവ് താഴ്ത്തി നിലനിർത്തുവാനും നമ്മൾ ശ്രമിക്കും എന്നാൽ ഈർപ്പംത്തിൻറെ അളവ് ഇതിലും കുറഞ്ഞ ഇരിക്കുന്ന വടക്കൻ പ്രദേശങ്ങളിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ ഈർപ്പംത്തിൻറെ അളവ് ഉയർത്തുന്നതും മുറിക്കുള്ളിലെ ഈർപ്പം കൂട്ടി നിലനിർത്തുന്നതും ആവശ്യമായി വന്നേക്കാം അപ്പോൾ എയർകണ്ടീഷൻ എന്നതിൻറെ പ്രാഥമികമായ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ താപനിലയും ഈർപ്പവും നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇവിടെ ഇത് ശീതികരണത്തിൽ നിന്നും വ്യത്യസ്തമാണ് ഇത് എങ്ങനെയാണ് നടക്കുന്നതെന്നും പറയുകയാണെങ്കിൽ റഫ്രിജറേഷൻ രീതിയിൽ തന്നെയാണ് എന്നിരുന്നാലും താപനില നിയന്ത്രിക്കുക എന്നുള്ള കാര്യങ്ങളിലെല്ലാം നിയന്ത്രിക്കുന്ന മാനദണ്ഡങ്ങളും ആയി ചില ബന്ധങ്ങളുണ്ട് അതായത് കണ്ടീഷൻഡ് സ്പേസിൽ ഏത് ലെവലിൽ ഉള്ള താപനിലയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നും ഏത് ലെവലിൽ ഉള്ള ഈർപ്പം ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നും മറ്റും അതായത് എപ്പോഴൊക്കെ നമ്മൾ എയർകണ്ടീഷൻറെ പ്രായോഗികതലത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നു അപ്പോഴൊക്കെ നമ്മൾ രണ്ടു ഘടകങ്ങളുടെ ഒരു മിശ്രിതത്തെ കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു ഗ്യാസ് പവർ സൈക്കിളിനെ കുറിച്ച് നമ്മൾ ഇതുവരെ സംസാരിച്ചപ്പോൾ ചർച്ച ചെയ്തതൊക്കെയും ഒരു ഐഡിയൽ ഗ്യാസിന് ഒരു പ്രവർത്തന മാധ്യമം ഉണ്ട് എന്നുള്ള കാര്യം ആണ് വേപ്പർ പവർ സൈക്കിളുകളേ കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ നീരാവിയും ദ്രവരൂപത്തിലുള്ള വെള്ളവും പ്രവർത്തനമാധ്യമം ആയി നമ്മൾ കണക്കാക്കി അപ്പോൾ നമ്മൾ എപ്പോഴും ഏക ഘടകത്തെ കുറിച്ചാണ് ചർച്ച ചെയ്തു കൊണ്ടിരുന്നത് എന്നിരുന്നാലും എയർ കണ്ടീഷനിംഗ് കാര്യത്തിൽ പരമ്പരാഗത സൈക്കിളുകളിൽ നമ്മൾ ഏക ഘടകമാണ് ഉപയോഗിച്ചിരുന്നത് അതാണ് റഫ്രിജറൻറ് ഇതിന് ബഹുവിധ ഘട്ടങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ അത് ഏക ഘടകമാണ് എന്നാൽ എയർ കണ്ടീഷനിംഗ്നിൻറെ പ്രായോഗിക തലത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാം നമുക്ക് കുറഞ്ഞത് രണ്ടു ഘടകങ്ങളെ കുറിച്ച് പറയേണ്ടതുണ്ട് ഒന്ന് വായു മിക്കവാറും ഇതിനെ ഡ്രൈ എയർ എന്നാണ് വിശേഷിപ്പിക്കുക മറ്റൊന്ന് നീരാവി അഥവാ ഈർപ്പം ഇവ രണ്ടും വാതക രൂപത്തിൽ ആണ് കാണപ്പെടുന്നത് എങ്കിലും ഒരു വ്യത്യാസമുണ്ട് ഓക്സിജൻ നൈട്രജൻ തുടങ്ങിയ ബോയിലിംഗ്പോയിൻറ് തീരെ താഴെ ആയിട്ടുള്ള വാതകങ്ങൾ കൊണ്ടാണ് ഡ്രൈ എയർ രൂപം കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രായോഗികമായി ഏത് കുറഞ്ഞ താപനിലയിലേക്ക് പോയാലും ഇവ എപ്പോഴും വാതക രൂപത്തിൽ തന്നെ നിൽക്കും എന്നിരുന്നാലും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നീരാവിയുടെ കാര്യത്തിൽ ഒരു നിശ്ചിത താപനിലയിൽ താഴെപ്പോയാൽ നീരാവി ഘനീഭവിച്ച് ദ്രവരൂപത്തിലാകും അതായത് വെള്ളം ആയി പരിണമിക്കും അങ്ങനെ അത് മിശ്രിതത്തിൽ നിന്നും വേറിട്ട് പോകുന്നു അതുകൊണ്ട് എയർ കണ്ടീഷനിംഗ് പ്രായോഗികതലത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാം അടിസ്ഥാനപരമായ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ മിശ്രിതത്തിൻറെ സ്വഭാവസവിശേഷതകൾ ഘനീഭവിക്കാത്ത വായുവും ഘനീഭവിയ്ക്കുന്ന നീരാവിയും ചേർന്നുള്ള ഈ മിശ്രിതം അല്പം കൂടി വിശദമായി പറയുകയാണെങ്കിൽ ഒരു നോൺ കണ്ടൻസ്ബിൾ ഗ്യാസും കണ്ടൻസ്ബിൾ വേപ്പറും ചേർന്ന മിശ്രിതം അപ്പോൾ എയർകണ്ടീഷനിംഗ്നെ കുറിച്ചുള്ള പഠനം ആരംഭിക്കുന്നത് ഇത്തരം ഗ്യാസ് വേപ്പർ മിശ്രിതങ്ങളുടെ സ്വഭാവസവിശേഷതകൾ പഠിക്കുന്നതിലൂടെയാണ് എന്നാൽ അത് പഠിക്കുന്നതിന് മുൻപേ രണ്ടു ഘടകങ്ങൾ ഉള്ള ഗ്യാസ് മിശ്രിതത്തിൻറെ സ്വഭാവങ്ങൾ പഠിക്കുകയാണ് പ്രധാനം ഈ ആഴ്ചയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതാണ് വാതകങ്ങളുടെ മിശ്രിതത്തെ കുറിച്ചു ഇതുവരെ നമ്മൾ ഏക ഘടകത്തെ കുറിച്ചാണ് ചർച്ച ചെയ്തു കൊണ്ടിരുന്നത് അതുകൊണ്ട് ഇവിടെ ഒന്നിലധികം ഘടകങ്ങളുള്ള മിശ്രിതത്തെ കുറിച്ച് അതിൻറെ സ്വഭാവത്തെക്കുറിച്ച് എല്ലാം പഠിക്കാൻ ശ്രമിക്കുന്നു രണ്ടു ഘടകങ്ങളും നോൺ കൺഡെൻസിബിൾ ആണ് അതായത് ഖനീഭവിക്കുക രണ്ടു ഘടകങ്ങളുടെയും താപനില നിർണായകമായ താപനിലയിലും മുകളിലായിരിക്കും അതുകൊണ്ട് ഇവയ്ക്ക് ദ്രവരൂപത്തിൽ ഘനീഭവിക്കുവാൻ യാതൊരു സാധ്യതയുമില്ല രണ്ടും വാതക രൂപത്തിൽ തന്നെ നിലനിൽക്കുകയും ചെയ്യും അങ്ങനെ ഇവയുടെ സ്വഭാവസവിശേഷതകൾ നമുക്ക് ഈ ആഴ്ച പഠിക്കുവാനും കഴിയും ഏറെക്കുറെ ആഴമേറിയ ചർച്ചകൾ ശീതികരണത്തെക്കുറിച്ച് നമ്മൾ നടത്തി അല്ലെങ്കിൽ വിവിധതരം ശീതീകരണസൈക്കിളുകളെകുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു അതുകൊണ്ട് ഈ ആഴ്ചയിൽ വാതകങ്ങളുടെ മിശ്രിതങ്ങളെകുറിച്ചു ചുരുങ്ങിയ രീതിയിൽ ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രാധാന്യമുള്ള ഭാഗങ്ങൾ മാത്രമാണ് ഈ ചർച്ചയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ പ്രായോഗികതലത്തിൽ ഉപയോഗപ്രദമായവ മാത്രമാണ് ഞാൻ വിശദീകരിക്കുവാൻ ശ്രമിക്കുന്നത് ഇത് രണ്ടു ലക്ച്ചർകളിൽ ഒതുക്കി നിർത്തുവാൻ ഞാൻ ശ്രമിക്കാം ഒന്നാമതായി ഒരു വാതക മിശ്രിതത്തിൻറെ കൂട്ട് എങ്ങനെയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ ശ്രമിക്കാം വാതക മിശ്രിതത്തിലെ കമ്പോസിഷൻ തിരിച്ചറിയുവാനായി വായു ഒരു ഉദാഹരണമായി എടുക്കാം കാരണം സാധാരണയായി ഓക്സിജൻ നൈട്രജൻ എന്നീ വാതകങ്ങൾ 99 വോളിയം സ്വായത്തമാക്കിയിരുന്നു കാർബൺ ഡൈഓക്സൈഡ് മറ്റുവാതകങ്ങൾ എന്നിവ വളരെ ചെറിയ അളവിൽ മാത്രമേ കാണുകയുള്ളൂ തീർച്ചയായും വായുവിൽ അന്തരീക്ഷത്തിലെ നീരാവിയും ഉണ്ടാവും പക്ഷേ ഒരു ചർച്ചക്ക് എടുക്കുമ്പോൾ കണക്കാക്കുന്ന വായു ഓക്സിജൻ നൈട്രജൻ മുതലായ വാതകങ്ങളുടെ ഒരു മിശ്രിതം മാത്രമാണ് വാസ്തവത്തിൽ കാർബൺഡയോക്സൈഡ് എന്ന് പറയുന്നത് ഒരു നോൺ കൺണ്ടൻസിബിൾ വാതകം അല്ല അത് ഘനീഭവിക്കാം കാരണം അതിൻറെ നിർണായകമായ താപനില ഏതാണ്ട് താഴെയാണ് അതുകൊണ്ട് നമ്മൾ മർദ്ദം ചെയ്യുകയാണെങ്കിൽ ഇതിലെ കാർബൺഡയോക്സൈഡ് ഭാഗം വിഭിന്നമായി പോയേക്കാം അതുകൊണ്ട് ഇവിടെ വായു എന്നുപറയുമ്പോൾ ഓക്സിജൻ നൈട്രജൻ മുതലായവയും മറ്റ് വാതകങ്ങളും ചേർന്ന ഒരു മിശ്രിതമാണ് ഉദ്ദേശിക്കുന്നത് ഇതിൻറെ കമ്പോസിഷൻ പഠിക്കുമ്പോൾ നമുക്ക് രണ്ട് സമീപനങ്ങൾ എടുക്കാവുന്നതാണ് ഒന്നാമത്തേത് മോളാർ അപ്രോച്ച് ഇതിൽ ഓരോ ഘടകത്തിനും മോളുകളുടെ എണ്ണം കൃത്യമായി പറയുന്നതാണ് രണ്ടാമത്തേത് ഗ്രാവിമെട്രിക് അപ്രോച്ച് ഇതിൽ ഓരോ ഘടകത്തിനും മാസ്സ് കൃത്യമായി രേഖപ്പെടുത്തുന്നതാണ് അപ്പോൾ മോളാർ അപ്രോച്ച്നെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കണക്കാക്കാം നമ്മൾ k നമ്പർ ഓഫ് ഘടകങ്ങളുള്ള മിശ്രിതത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നും ഓരോ ഘടകങ്ങളും വാസ്തവത്തിൽ വാതകങ്ങൾ ആണെന്നും ഇപ്പോൾ ഐഡിയൽ ഗ്യാസ് ആയിട്ട് ഇതിനെ അനുമാനിക്കാം യഥാർത്ഥ വാതകങ്ങളും ഉണ്ട് എന്നാൽ എല്ലാം വാതകങ്ങൾ തന്നെയാണ് അപ്പോൾ k ഘടകങ്ങളുണ്ട് ഇപ്പോൾ ഈ മിശ്രിതത്തിൻറെ ith ഘടക ത്തെ കുറിക്കുവാൻ നമുക്ക് ചെറിയ അക്ഷരത്തിലുള്ള 'i' ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾ എന്നിട്ട് മോളാർ അനാലിസിസ് നടത്തുവാൻ പോകുമ്പോൾ ഓരോ ഘടകത്തിനും എത്ര മോളുകൾ ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കണം നമുക്ക് ni എന്നാൽ ith ഘടകത്തിൻറെ മോളുകളുടെ എണ്ണം എന്ന് വയ്ക്കാം അതുപോലെ mi എന്നു പറയുന്നത് ith ഘടകത്തിൻറെ മാസിനെ കുറിക്കാൻ ഉപയോഗിക്കാം അപ്പോൾ ഈ മിശ്രിതത്തിന് ആകെയുള്ള മാസ്സ് എന്ന് പറയുന്നത് ഓരോ ഘടകത്തിനും ഉള്ള മാസിൻറെ ആകെത്തുകയാണ് അതുപോലെ ആകെ ഉള്ള മോളുകളുടെ എണ്ണം താഴെ പറയുന്നതിനു തത്തുല്യമായിരിക്കും കാരണം മാസ്സ് മോളുകൾ എന്നിവ ഉൽപാദിപ്പിക്കുവാൻ കഴിയുകയില്ല നശിപ്പിക്കപ്പെടുക ആണ് അതുകൊണ്ട് മിശ്രിതത്തിൽ സുരക്ഷിതമായവ നിലകൊള്ളുന്നു അങ്ങനെ നമുക്ക് മിശ്രിതത്തിൻറെ ആകെയുള്ള മാസ് മോളുകളുടെ എണ്ണം എന്നിവ ലഭിക്കുന്നു ഇപ്പോൾ ആകെയുള്ള മാസുമായി ith ഘടക ത്തിൻറെ മാസ്സ് ഹരിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് മാസ്സ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഇത് സാധാരണയായി കുറിക്കുവാൻ x എന്ന അക്ഷരമാണ് ഉപയോഗിക്കുക i എന്നതു ith ഘടകത്തെ കുറിക്കുന്നു അപ്പോൾ ith ഘടകത്തിൻറെ മാസ്സ് എന്ന് പറയുന്നത് സ്വന്തം മാസ്സും ആകെമൊത്തം ഉള്ള മാസ്സും ആയി ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് മോൾ ഫ്രാക്ഷൻ നിർവചിക്കാവുന്നതാണ് y എന്ന ചിഹ്നം ആണ് ഇതിനായി ഉപയോഗിക്കുക ഇത് എന്താണെന്നുവെച്ചാൽ ith ഘടകത്തിൻറെ മോളുകളുടെ എണ്ണം ആകെ ഉള്ള മോളുകളുടെ എണ്ണം ആയി ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് അപ്പോൾ ഒരുമിശ്രിതത്തിൽ എല്ലാ ഘടകങ്ങളുടെയും മാസ്സ് ഫ്രാക്ഷൻ നമ്മൾ കൂട്ടുകയാണെങ്കിൽ അതാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഇത് നമ്മൾ എഴുതി നോക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് i യുടെ സമ്മേഷൻ ലഭിക്കുന്നതാണ് മിശ്രിതത്തിലെ ഘടകങ്ങളുടെ ആകെമൊത്തമുള്ളത് ഒന്നിന് തുല്യമാണ് മിക്കപ്പോഴും നമ്മൾ മിശ്രിതത്തിന് ഒരു മോളാർ മാസ്സ് നിർവചിക്കാറുണ്ട് ആവറേജ് അല്ലെങ്കിൽ അപ്പാരൻറ് മോളാർ മാസ്സ് എന്ന് ഇതിനെ വിളിക്കാറുണ്ട് ഇതിനെ കുറിക്കുന്നതും Mm എന്ന ചിഹ്നം വഴിയാണ് ഇവിടെ ക്യാപിറ്റൽ M കുറിക്കുന്നത് മോളാർ മാസ്സ് അഥവാ മോളിക്കുലർ വെയിറ്റ് ആണ് m മിശ്രിതത്തെ യും ഇങ്ങനെ വിളിക്കാവുന്നതാണ് എന്താണ് മോളിക്കുലർ വെയിറ്റ് mi യും ni യും തമ്മിലുള്ള ബന്ധം എന്താണ് ith ഘടകത്തിലെ മാസ് എന്നു പറയുന്നത് മോളുകളുടെഎണ്ണവും ഘടകത്തിലെ മോളിക്കുലർ വെയ്റ്റ്യും തമ്മിൽ ഗുണിക്കുമ്പോൾ കിട്ടുന്നതും ആയി തുല്യമാണ് കാരണം മോളിക്കുലാർ വെയിറ്റ് എന്നു പറയുന്നത് ഒരു യൂണിറ്റ് മോളിന് എത്ര മാസ് ആണ് ഉള്ളത് എന്നാണ് അഥവാ ഒരു മോളിന് തത്തുല്യമായ മാസ്സ് എന്നതാണ് അപ്പോൾ മോളിക്കുലർ വെയ്റ്റ് ഇങ്ങനെ കുറിയ്ക്കാവുന്നതാണ് നിങ്ങൾക്ക് മിശ്രിതത്തിൻറെ മോളിക്കുലാർ വെയിറ്റ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും താഴെപ്പറയുന്ന റിലേഷൻ ഉപയോഗിക്കേണ്ടതാണ് നമുക്കിത് മിശ്രിതത്തിൻറെ ടോട്ടൽ മാസ്സ് എഴുതുവാനായി ഉപയോഗിക്കാം അത് താഴെ പറയുന്നതിന് തുല്യമാണ് ഇനി നിങ്ങൾക്ക് മിശ്രിതത്തിൻറെ അപ്പാരൻറ് അഥവാ ആവറേജ് മോളാർ മാസ്സ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആകെത്തുക അഥവാ ടോട്ടൽ മാസ്സ് എടുക്കാം അതായത് ആകെമൊത്തം ഉള്ള മോളുകളുടെ എണ്ണവും ഇതിൻറെ അപ്പാരൻറ് മോളിക്കുലർ വെയിറ്റും തമ്മിൽ ഗുണിക്കാം സ്മാൾ m എന്നു പറയുന്നത് മിശ്രിതത്തിൽ ലഭ്യമായ മോളുകളുടെ ആകെ മൊത്തം ഉള്ള നമ്പർ അപ്പാരൻറ് മോളിക്കുലാർ വെയിറ്റും ആയി ഗുണിക്കുമ്പോൾ കിട്ടുന്നതിനു തുല്യമാണ് താഴെപ്പറയുന്നതിനു തുല്യമായിരിക്കണം എന്നിട്ട് നിങ്ങൾ ഇതിനെ ഇരുവശങ്ങളിലും n കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് മിശ്രിതത്തിൻറെ അപ്പാരൻറ് മോളാർ മാസ്സ് ലഭിക്കും അത് താഴെ പറയുന്നതിന് തുല്യമായിരിക്കും എന്നിട്ട് നിങ്ങൾ ഇത് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അത് താഴെ പറയുന്നതുപോലെ ആകുന്നു ഇതാണ് മിശ്രിതത്തിൻറെ അപ്പാരൻറ് മോളാർ മാസ്സ് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതൊരു നോൺ ഫിസിക്കൽ അല്ലെങ്കിൽ അഭൌതിക അളവാണ് ഇതൊരു സങ്കല്പമാണ് കാരണം ഓരോ ഘടകത്തിനും അതിൻറെതായ ഒരു മോളാർ മാസ്സ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഓരോ വ്യത്യസ്ത ഘടകങ്ങൾക്കും തീർച്ചയായും അതിൻറെതായ ഒരു മോളാർ മാസ്സ് ഉണ്ടായിരിക്കും എന്നാൽ മിശ്രിതത്തെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ മോളാർ മാസ് ഇല്ല ഇത് ഒരുതരം കണക്കുകൂട്ടൽ മാത്രമാണ് ഇത് സാധാരണയായി മിശ്രിതത്തിന്റെ ശരാശരി ഗ്യാസ് കോൺസ്റ്റൻഡ് കണക്കാക്കാൻ സഹായിക്കുന്നു മോളാർ മാസും ഗ്യാസ് കോൺസ്റ്റണ്ടും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ കണക്കാക്കണം എങ്കിൽ എന്ത് ചെയ്യണം അല്ലെങ്കിൽ Ri ith ഘടകത്തിനായുള്ള ഗ്യാസ് കോൺസ്റ്റണ്ട്നെ സൂചിപ്പിക്കുന്നുവെങ്കിൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻഡ് ആയുള്ള ബന്ധം എന്താണ് ഗ്യാസ് കോൺസ്റ്റൻഡ് എന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റണ്ട്നെ മോളാർ വെയിറ്റ് കൊണ്ട് ഹരിക്കുന്നതാണ് ഇതു തന്നെ ഇവിടെയും പ്രാവർത്തികം ആണ് അപ്പോൾ നിങ്ങൾക്ക് മിശ്രിതത്തിന്റെ ആവറേജ് അല്ലെങ്കിൽ അപ്പാരൻറ് ഗ്യാസ് കോൺസ്റ്റൻഡ് എഴുതണം എന്ന് ഉണ്ടെങ്കിൽ നമുക്ക് Rm എന്ന് ചിഹ്നം ഉപയോഗിക്കാവുന്നതാണ് അത് താഴെ പറയുന്നതിന് തുല്യമാണ് അവിടെനിന്നും മിശ്രിതത്ത്തിൻറെ അപ്പാരൻറ് ഗ്യാസ് കോൺസ്റ്റൻഡ് ലഭിക്കുന്നത് ആണ് അതിന് അനുസൃതമായി ഒരാൾ xi എന്ന് എഴുതുകയാണെങ്കിൽ നമുക്കറിയാം മോളിക്കുലർ വെയ്റ്റിൻറെ കാര്യത്തിൽ എപ്പോഴും നമുക്ക് ഇതിനെ ചുവടെ കൊടുത്തിരിക്കുന്ന അതുപോലെ തത്തുല്യമായി എഴുതുവാൻ സാധിക്കുന്നതാണ്

അതുകൊണ്ട് ഇത് മോളാർ അനാലിസിസും ഗ്രാവിമെട്രിക് അനാലിസിസും തമ്മിലുള്ള മറ്റൊരു ബന്ധമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ പറയാം മാസ്സ് ഫ്രാക്ഷൻ മോൾ ഫ്രാക്ഷൻ എന്നൊക്കെ ഇപ്പോൾ ഈ പ്രത്യേക ഫലം വളരെ പ്രധാനമാണ് കാരണം നിങ്ങൾ ഇത് ഒരു തവണ ഉപയോഗിച്ചതാണ് എവിടെയാണ് നിങ്ങൾ ഉപയോഗിച്ചത് മിശ്രിതത്തിൻറെ അപ്പാരൻറ് ഗ്യാസ് കോൺസ്റ്റൻഡ് എന്നുള്ളത് എയർ സ്റ്റാൻഡേർഡ് അനുമാനങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ അനേകം പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ട് ഗ്യാസ് പവർ സൈക്കിളിലും എയർ സ്റ്റാൻഡേർഡ് സൈക്കിളിലും നമ്മൾ ഐഡിയൽ ഗ്യാസ് നൽകുന്ന പ്രവർത്തന മാധ്യമത്തെ കണക്കിൽ എടുത്തിട്ടുണ്ട് നമ്മൾ വായുവിൻറെ ചില സ്വഭാവസവിശേഷതകൾ ഉപയോഗിച്ചിട്ടുണ്ട് അവിടെ നിങ്ങൾ ഒരുപക്ഷേ ഉപയോഗിച്ചിട്ടുണ്ടാകാം Rair 0 287 kJkgK എവിടെനിന്നാണ് ഈ സംഖ്യ വന്നത് വാസ്തവത്തിൽ വായു എന്ന് പറയുന്നത് വിവിധ വാതകങ്ങളുടെ ഒരു മിശ്രിതം മാത്രമാണ് അപ്പോൾ ഈ അളവ് വന്നത് ഈ പ്രത്യേകത റിഡക്ഷൻ ഉപയോഗിച്ചാണ് പ്രാഥമികമായി ആയി വായുവിനെ 79 നൈട്രജനും 21 ഓക്സിജനും അടങ്ങിയ ഒരു മിശ്രിതമായി കണക്കാക്കുന്നു ഇവിടെ അക്കങ്ങൾ ചേർത്തുവയ്ക്കുക നിങ്ങൾക്ക് ഓക്സിജനും നൈട്രജനും ഉള്ള മോളിക്കുലർ വെയിറ്റ് അറിയാം ഇപ്പോൾ നിങ്ങൾ 79 അഥവാ 0 79 നൈട്രജൻറെ മോൾ ഫ്രാക്ഷൻ ആയി ഉപയോഗിക്കുകയ്യും 0 21 ഓക്സിജന് ഉപയോഗിക്കുകയ്യും ചെയ്യുകയാണെങ്കിൽ ഇത് രണ്ടും കൂട്ടിച്ചേർക്കുമ്പോൾ നിങ്ങൾക്ക് അപ്പാരൻറ് മോളാർ മാസ്സ് ലഭിക്കും പിന്നീട് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് അപ്പാരൻറ് ഗ്യാസ് കോൺസ്റ്റൻഡ് ലഭിക്കും ഇത് 0 287 ഇതിന് വളരെ അടുത്തായിരിക്കും ഇങ്ങനെ നമുക്ക് രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള വാതക മിശ്രിതങ്ങളുടെ അവലോകനങ്ങൾ ലഭിക്കും

നമ്മൾ ഇനിയും മുന്നോട്ടു പോകുന്നതിനു മുൻപായി പെട്ടെന്ന് നമുക്ക് ഇതൊന്നു പരിശീലിക്കാം മൂന്ന് ഘടകങ്ങൾ ഉള്ള ഒരു വാതക മിശ്രിതത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് ഓക്സിജൻ നൈട്രജൻ CH4 മീതൈൻ എന്നിവയുണ്ട് അവയുടെ മാസ്സ് നൽകിയിട്ടുണ്ട് അവയുടെ mi കിലോഗ്രാമിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ ഓക്സിജന് മൂന്ന് എന്നാണ് തന്നിരിക്കുന്നത് നൈട്രജൻ 5 മീതൈൻ 12 അങ്ങനെ മിശ്രിതത്തിന് ആകെമൊത്തം ഉള്ള മാസ് താഴെപ്പറയുന്നതിനു തുല്യമായിരിക്കും

ഇനിയും xi മോളാർ മാസ്സ് വ്യക്തിഗതമായ മാസ്സുകളെ ആകെമൊത്തം ഉള്ള മാസ്സുമായി ഹരിക്കേണ്ടതുണ്ട് അത് താഴെ പറയുന്നതിനു സമമാണ് 320 0

60 🡪CH4 അപ്പോൾ ഇവയാണ് സമാന്തരമായ മോളാർ മാസ്സ് ഓരോ ഘടക ത്തിൻറെയും മാസ്സ് ഫ്രാക്ഷൻ കണക്ക് കൂട്ടുന്നു അവിടെ നമുക്ക് മോൾ ഫ്രാക്ഷൻ ലഭിക്കേണ്ടതുണ്ട് ഇത് ലഭിക്കുന്നതിന് നമ്മൾ അവയുടെ മോളികുലാർ വെയ്റ്റ് അറിഞ്ഞിരിക്കണം എന്താണ് ഓക്സിജൻറെ മോളിക്കുലാർ വെയിറ്റ് നമുക്ക് അതിങ്ങനെ എടുക്കാം 16 × 2 32 🡪 O2 14 × 2 28 🡪 N2 12 4 16 🡪 CH4 അപ്പോൾ അതിനു സമാന്തരമായി ഓരോന്നിൻറെയും മോളുകളുടെ എണ്ണം അഥവാ കിലോ മോളുകളുടെ എണ്ണം നിങ്ങൾക്ക്പരിശോധിക്കണം എന്നുണ്ടെങ്കിൽ അത് എപ്പോഴും മാസിനെ മോളിക്കുലർ വെയിറ്റുമായി ഹരിക്കുമ്പോൾകിട്ടുന്നതാണ് അത് ഇങ്ങനെയാണ് 332 0 75 🡪CH4 അതിരിക്കട്ടെ എന്താണ് ഈ ni യുടെ യൂണിറ്റ് അതുപോലെതന്നെ നേരത്തെ നമ്മൾ എഴുതിയ M ൻറെ യൂണിറ്റ് എന്താണ് മോളുകളുടെ എണ്ണം തന്നിരിക്കുന്നത് കിലോ മോളിൽ ആണ് അപ്പോൾ മോളിക്കുലർ വെയ്റ്റിൻറെ യൂണിറ്റ് എന്താണ് മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത് അളവുകളില്ലാത്ത ഒരു വസ്തുതയല്ല നമ്മൾ നേരത്തെ ഇത് ഉപയോഗിച്ചിട്ടുള്ളതാണ് അതായത് മാസ് ബൈ യൂണിറ്റ് മോള് ഇത് കിലോഗ്രാം കിലോ മോളിന് തുല്യമാണ് എന്നാൽ തീർച്ചയായും xi yi എന്നിവ അളവില്ലാത്ത വസ്തുതകളാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഓരോ ഘടകത്തിനും കൃത്യമായ മോളു കളുടെ എണ്ണം അറിയാം നമുക്ക് ഇനി yi കിട്ടേണ്ടതുണ്ട് അതിനായി നമുക്ക് ആദ്യം മോളുകളുടെ ആകെ എണ്ണം വേണ്ടതുണ്ട് അപ്പോൾ n എന്ന് പറയുന്നത് താഴെ പറയുന്നതിന് തുല്യമാണ്

ഇത് അവിടെ ഇടുമ്പോൾ നമുക്ക് ഇപ്പോൾ മോൾ ഫ്രാക്ഷൻ ലഭിക്കുന്നതാണ് 0 023 0 023 0 733 🡪CH4 ഈ മൂന്ന് xi yi മൂല്യങ്ങളുടേയും ആകെത്തുക എന്ന് പറയുന്നത് ഒന്നാണ് റൌണ്ട് ഓഫ് ചെയ്യുമ്പോൾ ചെറിയ ഫ്രാക്ഷൻ ഉണ്ടാകാം നിങ്ങൾക്ക് ഇപ്പോൾ മൂന്ന് ഘടകങ്ങളുടെയും മാസും മോൾ ഫ്രാക്ഷൻ ഉം അറിയാം ഇനി നമുക്ക് മിശ്രിതത്തിന് ആവറേജ് മോളാർ മാസും ഗ്യാസ് കോൺസ്റ്റൻഡും കണ്ടെത്തേണ്ടതുണ്ട് ആവറേജ് മോളാർ മാസ് കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആകെമൊത്തം ഉള്ള മാസിനെ ആകെമൊത്തം ഉള്ള മോളുകളുടെ എണ്ണവുമായി ഹരിക്കണം അത് ചുവടെ പറഞ്ഞിരിക്കുന്നത് പോലെയാണ്

ഇത് കണക്കുകൂട്ടാൻ നിങ്ങൾക്ക് മറ്റൊരു വഴിയും കൂടിയുണ്ട് ഇതെങ്ങനെയാണ് നമുക്ക് ലഭിക്കുക ഈ പ്രത്യേക ഫോർമുല ഉപയോഗിച്ചാൽ നമുക്ക് അത് ലഭിക്കും

അവസാനമായി മിശ്രിതത്തിൻറെ R ഗ്യാസ് കോൺസ്റ്റൻഡ് അഥവാ അപ്പാരൻറ് ഗ്യാസ് കോൺസ്റ്റൻഡ് എന്നു പറയുന്നത് യൂണിവേഴ്സ്ൽ ഗ്യാസ് കോൺസ്റ്റൻഡ് എന്നതിനെ അപ്പാരൻറ് മോളാർ മാസുമായി ഹരിക്കുമ്പോൾ ലഭിക്കുന്നതാണ് അത് നമ്മൾ കണക്ക് കൂട്ടിയതാണ് എന്താണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻഡ് നിങ്ങൾ ഈ മൂല്യം അഥവാ വാല്യൂ ഓർത്തുവയ്ക്കാൻ ശ്രമിക്കേണ്ടതാണ് അത് ഇങ്ങനെയാണ്

വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് R ബാറിൻറെ യൂണിറ്റ് എന്ന് പറയുന്നത് 8 314kJkmolK ആണ് നമ്മൾ ഇതിനെ മോളിക്കുലർ മാസുകളുമായി ഹരിക്കുമ്പോൾ അതായത് kgkmol ഒരു യൂണിറ്റിൻറെ സ്പെസിഫിക് ഗ്യാസ് കോൺസ്റ്റൻറ് എന്ന് പറയുന്നത് kJkgK ആണ് അപ്പോൾ നമുക്ക് മാസും മോൾ ഫ്രാക്ഷനും കണക്കുകൂട്ടാൻ സാധിക്കും കൂടാതെ വാതക മിശ്രിതത്തിന് ചില പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങളും ലഭിക്കുന്നു നമുക്ക് ഒരു മിശ്രിതത്തിൻറെ P v T സ്വഭാവത്തിലേക്ക് നീങ്ങാം P v T എന്ന് പറയുന്നത് മർദ്ദം വ്യാപ്തി താപനില എന്നിവ തമ്മിലുള്ള ബന്ധമാണ് അല്ലെങ്കിൽ സ്പെസിഫിക് വോളിയം പ്രഷർ ടെമ്പറേച്ചർ എന്നിങ്ങനെ പറയേണ്ടത് ആകുന്നു ഏതു വാതകത്തിനും രണ്ടു തരത്തിലുള്ള ബന്ധങ്ങൾ ആണ് ഉള്ളത് ഏക വാതകത്തിൻറെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് സാധ്യതകളുണ്ട് ഒന്ന് ഐഡിയൽ ഗ്യാസ് എടുക്കുക എന്നതാണ് നമുക്കറിയാം ഐഡിയൽ ഗ്യാസ്ൻറെ കാര്യത്തിൽ സമാന്തരമായ P v T ബന്ധം അഥവാ ഇക്വേഷൻ താഴെ പറയുന്നതു പോലെയാണു് തന്നിരിക്കുന്നത് Pv RT ഇവിടെ v എന്നുപറയുന്നത് സ്പെസിഫിക് വോളിയം ആണ് R എന്നുപറയുന്നത് ഗ്യാസ് കോൺസ്റ്റൻഡ് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു യഥാർത്ഥ വാതകത്തെകുറിച്ച് പറയുക എന്നതാണ് യഥാർത്ഥ വാതകത്തിൻറെ കാര്യമെടുക്കുകയാണെങ്കിൽ നമ്മളത് രണ്ടാമത്തെ ആഴ്ചയിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ആണ് Pv ZRT എങ്ങനെയാണ് കംപ്രസ്ബിലിറ്റി ഫാക്ടർ കണക്കുകൂട്ടുന്നത് കംപ്രസ്ബിലിറ്റി ചാർട്ട് ഉപയോഗിച്ച് തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് ഒരുപക്ഷേ അറിയാമായിരിക്കും ക്രിട്ടിക്കൽ മർദ്ദം ക്രിട്ടിക്കൽ താപനില എന്നീ ആശയങ്ങളിൽ നിന്നും നമുക്ക് ഈ z അഥവാ കംപ്രസ്ബിലിറ്റി ഫാക്ടർ മനസ്സിലാക്കാവുന്നതാണ് ഇനി ഏതെങ്കിലും പ്രായോഗിക വാതകങ്ങൾ സാന്ദ്രത കുറ വായിരിക്കുമ്പോൾ ഐഡിയൽ ഗ്യാസ്നോട് സമാനമായി എത്തുന്നു സാന്ദ്രത കുറവായിരിക്കുംപോൾ വാതകത്തിലെ തന്മാത്രകൾ പരസ്പരം വളരെ അകലത്തിൽ നിൽക്കുകയും അങ്ങനെ ഒരു തന്മാത്രയുടെ സാന്നിധ്യം അടുത്തുള്ള തന്മാത്രയുടെ സാന്നിധ്യത്തിൽ സ്വാധീനപെടുകയില്ല തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ അധികം ആകയാൽ ഒരു തരത്തിലുള്ള യഥാർത്ഥ സ്വാധീനവും ഉണ്ടാവുകയില്ല ഇത്തരം ഒരു സാഹചര്യത്തിൽ യഥാർത്ഥ വാതകം ഐഡിയൽ വാതക ത്തിൻറെ സ്വഭാവത്തിനു സമാനമായി വരുന്നു ഈയൊരു സാഹചര്യത്തിൽ വാതകത്തിന് സാന്ദ്രത വളരെ കുറവായിരിക്കും അതിൻറെ മർദ്ദം കുറവാണെങ്കിലോ അല്ലെങ്കിൽ താപനില ഉയർന്നതാണെങ്കിലോ മാത്രം അപ്പോൾ ഏതൊരു യഥാർഥ വാതകവും മർദ്ദം കുറഞ്ഞിരിക്കുമ്പോളോ അല്ലെങ്കിൽ താപനില ഉയർന്നിരിക്കുമ്പോളോ ഐഡിയൽ വാതക സ്വഭാവത്തിനു സമാനമായി വരുന്നു കുറഞ്ഞ താപനില എന്നു പറയുമ്പോൾ എത്രത്തോളം കുറഞ്ഞതാണ് ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് രണ്ടാമത്തെ ആഴ്ചയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് കുറഞ്ഞ മർദ്ദം എന്നു പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് PR ആണ് കുറഞ്ഞ മർദ്ദം താഴെ പറയുന്നതു പോലെയാണ് അല്ലെങ്കിൽ അത് ഏകദേശം 0 5 നും ഇടയ്ക്കുള്ള റേഞ്ചിൽ ആയിരിക്കും എങ്കിൽ മാത്രമേ മർദ്ദം കുറവാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അതുപോലെ കൂടിയ താപനില എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് TR ആണ്

ഇത് 2 നേക്കാൾ അധികം ആയിരിക്കുന്നതാണ് അഭികാമ്യം എന്നാൽ മാത്രമേ ഉയർന്ന താപനിലയെ കുറിച്ച് പറയാൻ കഴിയുകയുള്ളു അതുകൊണ്ട് അന്തരീക്ഷത്തിലെ താപനില 300K ആയിരിക്കും ഇത് ഹൈഡ്രജൻ പോലെ തീരെ കുറഞ്ഞ ക്രിട്ടിക്കൽ താപനിലയുള്ള വാതകങ്ങൾക്ക് ഒരു വലിയ താപനില തന്നെയാണ് എന്നിരുന്നാലും നമ്മൾ വെള്ളത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വെള്ളത്തിൻറെ ക്രിട്ടിക്കൽ താപനില 647 K ആണെന്നിരിക്കെ ഈ അന്തരീക്ഷ താപനില വളരെ കുറവാണ് എന്നാൽ മർദ്ദത്തിൻറെ കാര്യമെടുത്താൽ നമുക്ക് ഇതുപോലെ നിർണായക മർദ്ദത്തിൽ തിരിച്ചറിയാൻ കഴിയും അപ്പോൾ സാന്ദ്രത കുറവായിരിക്കുംപോൾ അതായത് നമ്മൾ നിലനിർത്തിയ മേൽപ്പറഞ്ഞ നിബന്ധനകളുടെ വെളിച്ചത്തിൽ നമുക്ക് ഐഡിയൽ ഗ്യാസിന് സ്വഭാവസവിശേഷതകൾ അനുമാനിക്കാം എന്നാൽ ചിലപ്പോൾ ഈ നിബന്ധനകൾ ഈ പരിധിക്ക് ഉള്ളിൽ അല്ലായിരിക്കാം അതിനാൽ നമുക്ക് യഥാർത്ഥ വാതക സ്വഭാവത്തിലേക്ക് പോകേണ്ടതുണ്ട് കംപ്രസ്സബിലിറ്റി ഫാക്ടർ തിരിച്ചറിയുന്ന്തിന് ഉള്ള വിവിധതരം സാധ്യതകളും നമ്മൾ ചർച്ച ചെയ്തുകഴിഞ്ഞു റിയൽ ഗ്യാസ് ഇക്വേഷൻസ് അവലംബിക്കുക എന്നുള്ള സാധ്യതയുമുണ്ട് വാണ്ടർ വാൾ ഇക്വേഷൻ അഥവാ റിയൽ ഗ്യാസ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്നിവ മറ്റു ചിലതാണ് ഇപ്പോൾ വാതകങ്ങളുടെ മിശ്രിതത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഏതാനും ചില ഐഡിയൽ ഗ്യാസുകൾ നമ്മൾ കൂട്ടിക്കലർത്തുകയാണെങ്കിൽ അപ്പോൾ ലഭിക്കുന്ന മിശ്രിതവും ഒരു ഐഡിയൽ ഗ്യാസ് ആയിരിക്കും കാരണം ഒരിക്കൽ നിങ്ങൾ അവയെ കൂട്ടിക്കലർത്തുകയാണെങ്കിൽ മിശ്രിതം ആണെങ്കിൽ പോലും ഓരോ തന്മാത്രകളും പരസ്പരം വളരെ അകലത്തിൽ ആയിരിക്കും അതുകൊണ്ട് അടുത്തുള്ള തന്മാത്രകൾ ഒരേ തരത്തിലുള്ളവ ആണോ അല്ലയോ എന്നത് വിഷയമല്ല കുറഞ്ഞ മർദ്ദം ഉയർന്ന താപനില എന്നീ സാഹചര്യങ്ങളിൽ ഉള്ള വായുവിന്റെ കാര്യത്തിൽ എന്നതുപോലെതന്നെ ഒരു സാധ്യതയുണ്ട് ഒരു പ്രത്യേക ഓക്സിജൻ തന്മാത്ര എടുത്തു നോക്കിയാൽ അതിനു അടുത്തുള്ള തന്മാത്ര ഏതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല മറ്റൊരു ഓക്സിജൻ തൻമാത്രയോ നൈട്രജൻ തൻമാത്രയോ അതുമല്ലെങ്കിൽ കാർബൺഡയോക്സൈഡ് തൻമാത്രയോ ആയിരിക്കാം ഇത്തരം ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ മിശ്രിതത്തിന്നും ഒരു ഐഡിയൽ ഗ്യാസിൻറെ സ്വഭാവം ഉള്ളതായി അനുമാനിക്കാം അതിനു വേണ്ടി താഴെപ്പറയുന്ന ബന്ധം ഉപയോഗിക്കാം Pv RT ഇവിടെ തീർച്ചയായും R എന്നു പറയുന്നത് മിശ്രിതത്തിന്റെ R ആണ് മിശ്രിതത്തിന്റെ ഗ്യാസ് കോൺസ്റ്റൻസ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രക്രിയ നടത്തുന്നത് വഴി അത് കണക്കാക്കാവുന്നതാണ് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്ന മിശ്രിതം ഒരു പ്രതികരണശേഷിയില്ലാത്ത മിശ്രിതമാണ് ഒരു രാസപ്രക്രിയയും ഇവിടെ നടക്കുന്നില്ല ഉദാഹരണത്തിന് ഹൈഡ്രജനും ഓക്സിജനും അടങ്ങിയ ഒരു മിശ്രിതത്തെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ താപനില ഉയർന്നതും ആണെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച് റിയാക്ട് ചെയ്യുവാൻ തുടങ്ങും അത്തരമൊരു സാഹചര്യത്തിൽ അത് യാതൊരു വാതക സ്വഭാവങ്ങളുടെ നിയമവും പാലിക്കുന്നില്ല എന്നാൽ പ്രതികരണശേഷിയില്ലാത്ത മിശ്രിതം ആയിരിക്കുന്നിടത്തോളം ഐഡിയൽ ഗ്യാസ് കളുടെ ഒരു മിശ്രിതം ഐഡിയൽ ഗ്ലാസിൻറെ സ്വഭാവം മാത്രം പ്രകടമാകും ഈ P v T ബന്ധത്തോട് അനുബന്ധിച്ച് 2 നിയമങ്ങൾ പൊതുവായി നമ്മൾ പഠിക്കാറുണ്ട് അതിൽ ഒന്നാമത്തേത് ഡാൽട്ടൻസ് ലോ ഓഫ് അഡിടീവ് പ്രഷർ എന്നുള്ളതാണ് ഇത് നിങ്ങൾ ഒരുപക്ഷേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടആവാം ഇതിൻറെ മറ്റൊരു പേര് ഡാൽട്ടൻസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എന്നതാണ് Dalton's law of partial pressure ഡാൽട്ടൻസ് ലോ ഓഫ് ആഡിടീവ് പ്രഷർ എന്ന് പറയുന്നത് ലോ ഓഫ് ആഡിടീവ് പ്രഷർ ആണ് ഈ പേരിനെക്കുറിച്ച് ഞാൻ അല്പം കൂടി വ്യക്തമാക്കേണ്ടതുണ്ട് കാരണം പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് ഐഡിയൽ വാതകങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് കൂടുതൽ പ്രധാനമായും ഉപയോഗിക്കപ്പെടുന്നത് ഡാൽട്ടൻസ് ലോ ഓഫ് ആഡിടീവ് പ്രഷർ എന്നു പറയുന്നത് എന്താണെന്ന് വച്ചാൽ ഒരു വാതക മിശ്രിതത്തിൻറെ മർദ്ദം എന്ന് പറയുന്നത് ഓരോ വാതകവും ഒറ്റയ്ക്ക് മിശ്രിതത്തിൻറെ താപനിലയിലും മർദ്ദത്തിലും നിലകൊള്ളുമ്പോൾ ഉണ്ടാക്കുന്ന മർദ്ദത്തിൻറെ ആകെത്തുകയാണ്

അതിനർത്ഥം ഉദാഹരണത്തിന് ഒരു വാതക മിശ്രിതത്തിനിൻറെ കാര്യമെടുക്കാം നമുക്ക് ഒരു താപനിലയിൽ Tm ഒരു വാതക മിശ്രിതമുണ്ട് അത് ഉപയോഗിക്കുന്ന ആകെയുള്ള വ്യാപ്തി Vm ആണ് k ഘടകങ്ങളുടെ ഒരു മിശ്രിതമാണ് ഇത് k ഘടകങ്ങൾ ഉൾപ്പെടുന്ന ഒരു വാതക മിശ്രിതം ആണ് നമുക്കുള്ളത് അത് Tm താപനിലയിൽ നിലനിർത്തുകയും Vm വ്യാപ്തി ഉപയോഗിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ k എണ്ണമുള്ള ഘടകങ്ങൾ നിറഞ്ഞ വാതകം ആകെമൊത്തം നിലനിർത്തുന്നതിന് പകരം ഈ മിശ്രിതത്തിൽ നിന്നും ഒരു ഘടകം മാത്രം എടുത്തതിനുശേഷം ബാക്കിയെല്ലാം മാറ്റുകയും ആണെങ്കിൽ ആ ഒരൊറ്റ ഘടകം മാത്രമായി Vm എന്ന ആകെ മാനമുള്ള വ്യാപ്തിയിൽ നിലകൊള്ളുകയും അതേ Tm എന്ന താപനിലയിൽ നിലനിർത്തുകയും ചെയ്താൽ നമുക്കു ലഭിക്കുന്നത് അത് എത്ര മർദ്ദമാണ് ആ മർദ്ദത്തെ നമുക്ക് Pi എന്നു വിളിക്കാം ഈ മർദ്ദത്തിൻറെ വലിപ്പം അഥവാ അളവ് എപ്പോഴും Tm Vm എന്നിവയെ ആശ്രയിച്ചിരിക്കും ഈ മിശ്രിത വാതകം ഒരു ഐഡിയൽ വാതകമാണ് എന്നുണ്ടെങ്കിൽ അത് ഐഡിയൽ വാതക സ്വഭാവം കാണിക്കും അതിൻറെ R Tm Vm എന്നിവയുടെ മൂല്യം അനുസരിച്ച് ഈ Pi നിർണ്ണയിക്കപ്പെടുന്നു അതുപോലെതന്നെ ഓരോ ഘടകവും Pi യ്ക്ക് വ്യത്യസ്തമായ ഒരു മൂല്യം കാണിക്കും കാരണം ഓരോന്നിനും R ൻറെ മൂല്യം വ്യത്യസ്തമായിരിക്കും ഒരു യഥാർത്ഥ വാതകം ആണെങ്കിൽ തീർച്ചയായും കംപ്രസബിലിറ്റി ഫാക്ടറിൻറെ മൂല്യവും വ്യത്യസ്തമായിരിക്കും അപ്പോൾ ഒരു മിശ്രിതത്തിൽ നിന്നും നമ്മൾ ഒരു ഘടകം വേർപെടുത്തി എടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഘടകത്തെ മാത്രം ആകെ മൊത്തം ഉള്ളത്ര വ്യാപ്തിയിലും അതേ താപനിലയിലും നിലനിൽക്കുവാൻ അനുവദിക്കുകയാണ് അപ്പോൾ ഓരോന്നിനും വ്യത്യസ്തമായ മർദ്ദമാണ് കാണിക്കുക ഈ മിശ്രിതത്തിൻറെ മർദ്ദം എന്നുപറയുന്നത് താഴെ പറയുന്നത് പോലെ ആയിരിക്കും ഇതിനെയാണ് നമ്മൾ ഡാൽറ്റൺസ് ലോ ഓഫ് അഡിടീവ് പ്രഷർ Dalton's law of additive pressure എന്ന് പറഞ്ഞത് ഇവിടെ Pi യെ വിളിക്കുന്നത് ഘടകത്തിൻറെ മർദ്ദം എന്നാണ് രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത് അമഗ്യാറ്റ്സ് ലോ ഓഫ് അഡിടീവ് വോളിയംസ് Amagat's law of additive volumes എന്നുള്ളതാണ് അമഗ്യാറ്റ്സ് ലോ ഓഫ് അഡിടീവ് വോളിയം പറയുന്നത് എന്താണെന്ന് വച്ചാൽ ഒരു വാതക മിശ്രിതത്തിൻറെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തിയെ കുറിച്ചാണ് മിശ്രിതത്തിൻറെ വ്യാപ്തി എന്ന് പറയുന്നത് മിശ്രിതത്തിലെ ഓരോ വാതകവും മിശ്രിതത്തിൻറെ അതേ താപനിലയിലും മർദ്ദത്തിലും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഉണ്ടാകുമായിരുന്ന വ്യാപ്തിയുടെ ആകെത്തുകയ്ക്ക് സമാനമായിരിക്കും അതിൻറെ അർത്ഥം വീണ്ടും k ഘടകങ്ങൾ ഉൾപ്പെടുന്ന വാതക മിശ്രിതതിൻറെ താപനില Tm ആണ് മർദ്ദം Pm ആണ് എന്നിട്ട് ഈ മിശ്രിതത്തിൽ നിന്നും നമ്മൾ ഒരു ഘടകം വേർതിരിച്ച് എടുക്കുകയും അതിനെ അതേ താപനിലയിലും മർദ്ദത്തിലും നിലനിൽക്കുവാൻ അനുവദിക്കുകയും ആണെങ്കിൽ അപ്പോൾ അത് കരസ്ഥമാക്കുന്ന വ്യാപ്തി എന്ന് പറയുന്നത് Vi എന്ന ചിഹ്നം കൊണ്ട് കുറിക്കാം ഈ വ്യാപ്തി യുടെ അളവ് താപനിലയെ യും മർദ്ദത്തെയും അനുസരിച്ചിരിക്കും ഇതുകൂടാതെ ഇൻഡിവിജ്വൽ ഗ്യാസ് കോൺസ്റ്റൻഡിൻറെ R മൂല്യത്തെയും അനുസരിച്ചായിരിക്കും അത് അതുപോലെ തന്നെ യഥാർത്ഥ വാതകത്തിൻറെ കാര്യത്തിൽ ഓരോ ഘടകത്തിനും Rൻറെ മൂല്യവും Z ൻറെ മൂല്യവും വ്യത്യസ്തമായിരിക്കും അങ്ങനെയെങ്കിൽ ഇവയിൽ ഓരോന്നും നിങ്ങൾക്ക് മേൽപ്പറഞ്ഞ V വ്യാപ്തിക്കു വ്യത്യസ്തമായ മൂല്യങ്ങൾ ആവും നൽകുക അമഗ്യാറ്റ്സ് ലോ ഓഫ് അഡിടീവ് വോളിയംസ് പറയുന്നത് എന്താണെന്ന് വച്ചാൽ മിശ്രിതം ഉപയോഗിക്കുന്ന ഭാഗത്തുള്ള വ്യാപ്തി എന്നു പറയുന്നത് എല്ലാ ഘടകങ്ങളുടെയും വ്യാപ്തിയുടെ ആകെത്തുകയാണ് ഇവിടെ Vi എന്നു പറയുന്നത് ഘടകത്തിൻറെ വോളിയം എന്നറിയപ്പെടുന്നു അപ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മിശ്രിതത്തിൻറെ മർദ്ദം വിലയിരുത്തുന്നത് ഒരു സ്ഥായിയായ താപനിലയും വ്യാപ്തിയും നിലനിർത്തുന്നതിലൂടെയാണ് അല്ലെങ്കിൽ മിശ്രിതത്തിന്റെ അത്രതന്നെ താപനിലയും വ്യാപ്തിയും നിലനിർത്തുന്നതിലൂടെയാണ് അതുപോലെതന്നെ ഘടകങ്ങളുടെ വ്യാപ്തി വിലയിരുത്തുന്നത് മിശ്രിതത്തിന്റെ അത്ര തന്നെ താപനിലയും മിശ്രിതത്തിൻറെ അത്രതന്നെ മർദ്ദവും നിലനിർത്തുന്നതിലൂടെയാണ് ഘടകങ്ങളുടെ മർദ്ദത്തിൻറെ ആകെത്തുക നിങ്ങൾക്ക് മിശ്രിതത്തിന് ആകെയുള്ള മർദ്ദം നൽകുന്നു ഘടകങ്ങളുടെ വ്യാപ്തിയുടെ ആകെത്തുക നമുക്ക് മിശ്രിതത്തിന് ആകെയുള്ള വ്യാപ്തി നൽകുന്നു ഘടകങ്ങളുടെ മർദ്ദത്തെ മിശ്രിതത്തിൻറെ ആകെയുള്ള മർദ്ദവും ആയി ഹരിക്കുമ്പോൾ കിട്ടുന്നതിനെ പ്രഷർ ഫ്രാക്ഷൻ എന്ന് പറയുന്നു അതുപോലെതന്നെ ഘടകങ്ങളുടെ വ്യാപ്തിയെ മിശ്രിതത്തിൻറെ വ്യാപ്തിയുമായി ഹരിക്കുമ്പോൾ കിട്ടുന്നതിനെ വോളിയം ഫ്രാക്ഷൻ എന്നു പറയുന്നു നിങ്ങൾ ഒരു ഐഡിയൽ വാതകത്തെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ഐഡിയൽ വാതകം ഡാൽറ്റൺസ് ലോ ഓഫ് അഡിടീവ് പ്രഷറും അമഗ്യാറ്റ്സ് ലോ ഓഫ് അഡിടീവ് വോളിയവും കൃത്യമായി പാലിക്കുന്നു എന്നിരുന്നാലും യഥാർത്ഥ വാതകങ്ങൾ അത് പാലിക്കുന്നില്ല അവയ്ക്ക് ഇതോടൊപ്പം കൂട്ടി ചേർക്കേണ്ട മറ്റുചില ഘടകങ്ങളുമുണ്ട് നിങ്ങൾ ഐഡിയൽ വാതകത്തിൻറെ കാര്യമാണ് എടുക്കുന്നതെങ്കിൽ തീർച്ചയായും കണ്ണുമടച്ച് ഈ രണ്ട് റിലേഷന് കളും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇപ്പോൾ നിങ്ങൾ ഒരു ഐഡിയൽ വാതക മിശ്രിതമാണ് എടുക്കുന്നതെങ്കിൽ ഒരു ഐഡിയൽ വാതക മിശ്രിതത്തിൻറെ കാര്യത്തിൽ നമുക്കറിയാം ഓരോ ഘടകവും താഴെപ്പറയുന്ന റിലേഷൻ ആണ് പാലിക്കുന്നത് Pv RT ഇപ്പോൾ നമ്മൾ ith ഘടകത്തെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ അതിന് മിശ്രിതത്തിൻറെ അത്ര തന്നെ താപനില ആയിരിക്കും ഉണ്ടാവുക അങ്ങനെയെങ്കിൽ അതിന് താഴെ പറയുന്നതുപോലെ ഒരു മൂല്യം ആവും ഉണ്ടാവുക PiVi RiTm പിന്നെ മിശ്രിതത്തിൻറെ കാര്യത്തിൽ PmVm RmTm ഇപ്പോൾ ഡാൽറ്റൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷറിൽ നിന്നും നമ്മൾ ഘടകത്തിലെ മർദ്ദം എഴുതുകയാണെങ്കിൽ ഡാൽറ്റൺസ് ലോ ഓഫ് അഡിടീവ് പ്രഷറിൽ നിന്നും ഘടകത്തിൻറെ മർദ്ദത്തിനെ കുറിക്കുവാൻ Pi എന്ന ചിഹ്നം ഉപയോഗിക്കുകയാണെങ്കിൽ അത് താഴെ പറയുന്നതു പോലെ വിലയിരുത്താവുന്നതാണ് ഇവിടെ നമ്മൾ Tm താപനിലയിലും Vm വ്യാപ്തിയിലും നിലനിർത്തപ്പെട്ട ith ഘടകത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ ഈ ith ഘടകത്തിന് വ്യാപ്തി എന്ന് പറയുന്നത് Vm ആണ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം നമ്മൾ ഇത് ആകെയുള്ള ഘടകങ്ങളുടെ കാര്യത്തിൽ എഴുതുകയാണെങ്കിൽ താഴെപ്പറയുന്നതിനു തുല്യമായി എഴുതാം 𝑃𝑖 𝑉𝑚 𝑚𝑖𝑅𝑖 𝑇𝑚 അപ്പോൾ അവിടെ നിന്നും നമുക്ക് എങ്ങനെ എഴുതാം ഈ V യുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് v ആണ് അതുകൊണ്ട് നമുക്ക് ഇത് താഴെപ്പറയുന്നതിനു തുല്യമായി എഴുതാം 𝑃𝑚 𝑉𝑚 𝑚𝑅𝑚 𝑇𝑚 അവിടെ നിന്നും നമ്മൾ Pm വേർപ്പെടുത്തുകയാണ് എങ്കിൽ അത് താഴെ പറയുന്നതു പോലെ ആകുന്നു അപ്പോൾ നിങ്ങൾ ഇത് തിരിച്ച് ഘടകത്തിൻറെ മർദ്ദത്തിൻറെ കാര്യത്തിൽ ഉപയോഗിക്കുക ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും

ഇപ്പോൾ നമ്മൾ ഇത് വേർപ്പെടുത്തുകയാണ് എങ്കിൽTm Vm എന്നിവ പോകുന്നു അങ്ങനെ നമുക്ക് താഴെ പറയുന്നതുപോലെ ലഭിക്കുന്നു

അപ്പോൾ ഐഡിയൽ വാതകത്തിൽ ഘടകത്തിൻറെ മർദ്ദം എന്നുപറയുന്നത് മോൾ ഫ്രാക്ഷന് തുല്യമാണ് ഇത് ഡാൽടൺസ് ലോയുടെ ആപ്ലിക്കേഷനാണ് നമ്മൾ ഡാൽടൺസ് ലോ ഓഫ് അഡിടീവ് പ്രഷർ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ എക്സ്പ്രഷൻ 𝑦𝑖 𝑃𝑚 𝑃𝑖 ഇത് പാർഷ്യൽ പ്രഷർ എന്നും അറിയപ്പെടുന്നു ഈ പദം ഐഡിയൽ വാതകങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് ഉപയോഗിക്കപ്പെടുന്നത് അത് യഥാർത്ഥവാതകത്തിൻറെ കാര്യത്തിൽ അത്ര കണ്ട് ഉപയോഗിക്കാറില്ല ഇതിനെ പാർഷ്യൽ പ്രഷർ എന്നും പറയുന്നു

ഇപ്പോൾ നമ്മൾ ഇതേ വിശകലനം വ്യാപ്തിയുടെ വീക്ഷണകോണിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ ith ഘടകത്തിനെ ആകെമൊത്തം ഉള്ള വ്യാപ്തി കരസ്ഥമാക്കുവാൻ അനുവദിക്കുന്നിടത്ത് നിന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ ith ഘടകത്തിലെ മർദ്ദവും താപനിലയും സ്ഥായിയായി നമ്മൾ നിലനിർത്തുകയാണ് എന്നിട്ട് അത് എത്രത്തോളം വ്യാപ്തി കരസ്ഥമാക്കുന്നുണ്ട് എന്ന് നമ്മൾ നോക്കുകയാണ് ഈ കേസിൽ ith ഘടക ത്തിന് 𝑃𝑚 𝑉𝑖 𝑚𝑖𝑅𝑖 𝑇𝑚 അവിടെ നിന്നും നമുക്ക് എഴുതാം അതുപോലെ പോലെ മിശ്രിതത്തിന് നമുക്കറിയാം അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നു ഇതിനെ നിങ്ങൾ സംയോജിപ്പിക്കുക യാണെങ്കിൽ ഇവിടെ അതുപോലെ ഇത് 𝑦𝑖 𝑉𝑚 𝑉𝑖 ഇത് പാർഷ്യൽ വോളിയം എന്ന് അറിയപ്പെടുന്നു അപ്പോൾ ഐഡിയൽ വാതകങ്ങൾക്ക് നമ്മൾ ഘടകത്തിൻറെ മർദ്ദത്തെ കാണിക്കുവാൻ പാർഷ്യൽ പ്രഷർ എന്ന പദമാണ് ഉപയോഗിച്ചത് ഘടകത്തിൻറെ വ്യാപ്തിയെ കാണിക്കുവാൻ പാർഷ്യൽ വോളിയം എന്ന പദവും ഉപയോഗിച്ചു എന്നാൽ യഥാർത്ഥ വാതകങ്ങളുടെ കാര്യത്തിൽ പൊതുവായി പാർഷ്യൽ എന്ന പ്രയോഗം ഉപയോഗിക്കാറില്ല w എന്നത് ഘടകത്തിൻറെ മർദ്ദം വ്യാപ്തി എന്നിവയുമായി ചേർന്നിരിക്കുന്നു ഇപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഐഡിയൽ വാതകങ്ങളുടെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത് എന്താണെന്നുവെച്ചാൽ ഐഡിയൽ വാതകങ്ങൾ ഡാൽറ്റൺസ് ലോ ഓഫ് അഡിടീവ് പ്രഷറും അമഗ്യാറ്റ്സ് ലോ ഓഫ് അഡിടീവ് വോളിയവും കൃത്യമായി പാലിക്കുന്നു എന്ന വസ്തുതയാണ് അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഘടകത്തിൻറെ മർദ്ദത്തെ മിശ്രിതത്തിൻറെ മർദ്ദവും ആയി ഹരിക്കുമ്പോൾ കിട്ടുന്നതും ഘടകത്തിൻറെ വ്യാപ്തിയെ മിശ്രിതത്തിൻറെ വ്യാപ്തിയുമായി ഹരിക്കുമ്പോൾകിട്ടുന്നതും മോൾ ഫ്രാക്ഷന് തുല്യമാണ് അതായത് yi അപ്പോൾ മോൾ ഫ്രാക്ഷൻ അറിയുന്നത് വഴി അല്ലെങ്കിൽ ഒരു വാതക മിശ്രിതത്തിൻറെ മോളാർ കമ്പോസിഷൻ അറിയുന്നത് വഴി നമുക്ക് എളുപ്പത്തിൽ ഓരോ ഘടകത്തിൻറെയും പാർഷ്യൽ പ്രഷറും പാർഷ്യൽ വോളിയവും തിരിച്ചറിയാവുന്നതാണ് ഇപ്പോൾ നമ്മൾ യഥാർത്ഥ വാതക മിശ്രിതത്തിലേക്ക് വരികയാണ് യഥാർത്ഥ വാതക മിശ്രിതതിലേക്ക് പോകുന്നതിനു മുൻപ് ഐഡിയൽ വാതക മിശ്രിതത്തിന് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഐഡിയൽ വാതക മിശ്രിതം പോലെ അലിയുവാൻ കഴിയുന്ന വാതകങ്ങളുടെ മിശ്രിതമാണ് എങ്കിൽ എങ്ങനെ ഈ ഘടകങ്ങൾ കണക്കുകൂട്ടാം കാരണം മോളാർ മാസ്സ് നേരിട്ടു അളന്ന് കണ്ടുപിടിക്കുക പ്രയാസകരമാണ് അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷൻ നേരിട്ട് മനസ്സിലാക്കുക പ്രയാസകരമാണ് അപ്പോൾ ഈ റിലേഷൻ വളരെ ഉപയോഗപ്രദമാണ് നമ്മൾ ഓർസാറ്റ് അപ്പാരറ്റസ് എന്ന ഒരു ഉപകരണം ഉപയോഗിക്കുന്നു ഓർസാറ്റ് അപ്പാരറ്റസ് എന്നു പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ കാണേണ്ടത് ട്യൂബുകളുടെ ഒരു നിര ഉള്ള ഒന്നായിട്ട് വേണം അല്ലെങ്കിൽ ചേംബറുകളുടെ ഒരു നിര ഉള്ള ഒന്നായിട്ട് വേണം സ്ഥായിയായ മർദ്ദത്തിലും താപനിലയിലും നമുക്കറിയാവുന്ന ഒരു വ്യാപ്തിയിലും നിലനിൽക്കുന്ന ഐഡിയൽ വാതകത്തിൻറെ മിശ്രിതം ആദ്യം ഇത്തരം ഒരു കമ്പാർട്ട്മെൻറ്ഇൽ കൂടി കടക്കാൻ അനുവദിക്കുമ്പോൾ ഇതിലെ ഒരു കംപോണൻറ് വാതകം അവിടെയുള്ള ചില രാസവസ്തുക്കളോട് ചേരുന്നു അത് അവിടെ നിന്ന് പുറത്തു വന്ന എഴുതിയപ്പോൾ അതിൻറെ തുടക്കത്തിലെ മർദ്ദത്തിലും താപനിലയിലും അതിൻറെ വോളിയം എന്ന് പറയുന്നത് അത് തുടക്കത്തിലുണ്ടായിരുന്ന ഘടകങ്ങളുടെ വോളിയം അതേക്കാൾ കുറവായിരിക്കും അവിടെനിന്നും അത് പുറത്തു വന്നാൽ ഇങ്ങനെ ഉതകുന്നതായ റിയജനെ ഉപയോഗിച്ച് നമുക്ക് ഓരോ ഘടകങ്ങളും ഒന്നൊന്നായി വലിച്ചെടുക്കാൻ ആവുന്നതാണ് അങ്ങനെ ഓരോ ഘടകത്തിൻറെയും പാർഷ്യൽ വോളിയതിൻറെ അളവും നമുക്ക് ലഭിക്കും ആകെമൊത്തം ഉള്ള മിശ്രിതത്തിൻറെ വ്യാപ്തി നിങ്ങൾക്കു അറിയാം എന്നിട്ട് പാർഷ്യൽ വോളിയത്തെ മിശ്രിതത്തിൻറെ ആകെയുള്ള വ്യാപ്തിയുമായി ഹരിക്കുമ്പോൾ നിങ്ങൾക്ക് മോൾ ഫ്രാക്ഷൻ കിട്ടുന്നു യഥാർത്ഥ വാതകങ്ങളുടെ കാര്യത്തിൽ വിവിധ സമീപനങ്ങൾ ഉണ്ട് കാരണം യഥാർത്ഥ വാതകം ഐഡിയൽ വാതകത്തിൻറെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് പാലിക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് മറ്റു വഴികൾ അന്വേഷിക്കേണ്ടതുണ്ട് ഇവിടെ ഡാൽട്ടൺസ് ലോയും അമഗ്യാറ്റ്സ് ലോയും കൃത്യമായി പാലിക്കപ്പെടുന്നില്ല ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് കൂടുതൽ കൃത്യതയുള്ള ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ് കൂടുതൽ കൃത്യതയുള്ള ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്നു പറയുന്നതു വാൻ ഡർ വാൾ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ആകാം അല്ലെങ്കിൽ റെഡ് ലിച്ച് കോങ് Redlich-Kwong ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ആകാം അതുമല്ലെങ്കിൽ പെങ്ങ് റോബിൻസൺ Peng-Robinson ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ആകാം നിങ്ങൾ കൂടുതൽ കൃത്യതയുള്ള ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അതായത് ആ പ്രത്യേക വാതകത്തിന് കൃത്യമായത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതിലും മെച്ചപ്പെട്ട ഫലം ലഭിക്കും രണ്ടാമത്തേത് എന്നു പറയുന്നത് കംപ്രസ്ബിലിറ്റി ഫാക്ടർ ഉപയോഗിക്കുക എന്നുള്ളതാണ് എങ്ങനെയാണ് കംപ്രസ്ബിലിറ്റി ഫാക്ടർ കണ്ടെത്തുന്നത് യഥാർത്ഥ വാതകത്തിൻറെ കാര്യത്തിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ എഴുതാം എന്ന് അറിയാം ഇവിടെ Z എന്നു പറയുന്നത് കംപ്രസ്ബിലിറ്റി ഫാക്ടർ ആണ് അവിടെ നിന്നും നമുക്ക് മിശ്രിതത്തിന് ഒരു Z തിരിച്ചറിയാം അതായത് മിശ്രിതത്തിൻറെ കംപ്രസ്സബിലിറ്റി ഫാക്ടർ ഈ Zm രണ്ടു തരത്തിൽ തിരിച്ചറിയാൻ സാധിക്കും ഒന്ന് ഡാൽറ്റ്ൺസ് ലോ അടിസ്ഥാനപ്പെടുത്തിയുള്ള സമീപനം അനുസരിച്ച് പോവുകയാണെങ്കിൽ കണ്ടെത്താം ഡാൽറ്റ്ൺസ് ലോ അടിസ്ഥാനപ്പെടുത്തിയുള്ള സമീപനം ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഓരോ ഘടകത്തിൻറെയും Zi എന്നത് 𝑍𝑖 𝑍𝑇𝑚 𝑉𝑚 എന്നിട്ട് അവിടെ നിന്നും നമുക്ക് ഘടകങ്ങൾ കിട്ടുകയും മിശ്രിതത്തിന് ആകെയുള്ള Z കിട്ടുകയും ചെയ്യുന്നു അത് താഴെ പറയുന്നതുപോലെ എഴുതാവുന്നതാണ് എല്ലാ ഘടകത്തിനും എന്നതു പോലെ തന്നെ ഈ പ്രത്യേക ബന്ധം എഴുതാവുന്നതാണ് നമ്മൾ മിശ്രിതത്തിലെ എല്ലാ ഘടകവും കൂട്ടുകയാണെങ്കിൽ മേൽപ്പറഞ്ഞ റിലേഷനിൽ നമ്മൾ എത്തുന്നു ഇത് ലഭിക്കുക ഡാൽറ്റ്ൺസ് ലോ ഉപയോഗിച്ചോ അല്ലെങ്കിൽ അമഗ്യാറ്റ്സ് ലോ ഉപയോഗിച്ചോ ആണ് അമഗ്യാറ്റ്സ് ലോ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 𝑍𝑖 𝑍𝑇𝑚 𝑃𝑚 അതായത് മിശ്രിതത്തിൻറെ മർദവും താപനിലയും അറിഞ്ഞാൽ ഉടൻ മർദ്ദത്തിനും താപനിലയ്ക്കും സമാന്തരമായ കംപ്രസ്ബിലിറ്റി ഫാക്ടറിൻറെ മൂല്യം കംപ്രസ്ബിലിറ്റി ചാർട്ടിൽ നിന്നും കണ്ടെത്തേണ്ടതുണ്ട് അതിനെ നമ്മൾ Zi എന്നു കുറിക്കുന്നു ഇത്തരത്തിൽ നമുക്ക് ഓരോ ഘടകത്തിൻറെയും തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ആ മിശ്രിതത്തിൻറെ മൂല്യം ലഭിക്കുന്നതാണ് സാധാരണയായി അമഗ്യാറ്റ്സ് ലോ അടിസ്ഥാനമാക്കിയുള്ള സമീപനമാണ് കൂടുതൽ കൃത്യം കാരണം ഡാൽറ്റ്ൺസ് ലോ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണം അവഗണിക്കുകയാണ് നമ്മൾ പാർഷ്യൽ പ്രഷർ നെക്കുറിച്ച് ആണല്ലോ ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് അമഗ്യാറ്റ്സ് ലോ വ്യാപ്തിയെ കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ട് തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണം കണക്കിൽ എടുക്കുന്നുണ്ട് അങ്ങനെ ഇതിലും മെച്ചപ്പെട്ട ഫലം ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് കുറഞ്ഞ മർദ്ദം ഉള്ള ആപ്ലിക്കേഷനുകളിൽ ഡാൽട്ടൻസ്സ് ലോ ഉപയോഗിക്കുന്നതായിരിക്കും ഉത്തമം കാരണം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണമതു കണക്കിലെടുക്കുന്നില്ല എന്നാൽ ഉയർന്ന മർദ്ദം ഉള്ള ആപ്ലിക്കേഷനുകളിൽ അമഗ്യാറ്റ്സ് ലോ ഉപയോഗിക്കുന്നതായിരിക്കും ഉത്തമം കാരണം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണമതു കണക്കിൽ എടുക്കുന്നതാണ് ഉയർന്ന മർദ്ദത്തിൽ ഇവ അതി പ്രധാനവുമാണ് അങ്ങനെ മൂന്നാമത്തെ സമീപനം എന്താണെന്ന് വെച്ചാൽ മിശ്രിതത്തെ ഒരു സ്യൂഡോ പോർ വസ്തുവായി കണക്കാക്കുക എന്നുള്ളതാണ് സ്യൂഡോ പോർ സബ്സ്റ്റൻസ് എന്നു പറയുന്നത് എന്താണ് ഇതിനായി നമ്മൾ ഒരു സ്യൂഡോ ക്രിട്ടിക്കൽ മർദവും താപനിലയും കണ്ടെത്തുന്നു മിശ്രിതത്തിൻറെ സ്യൂഡോ ക്രിട്ടിക്കൽ മർദ്ദം താഴെ പറയുന്നതു പോലെയാണ് തന്നിരിക്കുന്നത് അതുപോലെതന്നെ മിശ്രിതത്തിന്റെ സ്യൂഡോ ക്രിട്ടിക്കൽ താപനില താഴെ കൊടുത്തിരിക്കുന്നത് പോലെയാണ് എന്നിട്ട് നമ്മൾ ഇതിനെ സംയോജിപ്പിക്കുന്നു ഈ കംപ്രസ്സബിലിറ്റി ചാർട്ടിൽ നിന്നും മിശ്രിതത്തിൻറെ Z കിട്ടാൻ Zm കിട്ടി എന്നാൽ പിന്നെ നമുക്ക് റിലേഷൻഇലേക്ക് പോകാം അതായത് 𝑃𝑚 𝑉𝑚 𝑍𝑚 𝑅𝑇 ഇതാണ് മറ്റൊരു സമീപനം ഒന്നും രണ്ടും സമീപനങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് നമ്മൾ വളരെ ശ്രദ്ധാലുക്കളാ വേണ്ടതുണ്ട് രണ്ടാമത്തെ സമീപനത്തിൽ നമ്മൾ ഓരോ ഘടകത്തിനും Z കണക്കുകൂട്ടുകയും പിന്നീട് അവയെ കൂട്ടി എടുക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ താഴെ പറയുന്ന റിലേഷൻ ഉപയോഗിക്കുന്നു എന്ന് വേണം പറയാൻ Zm കിട്ടുവാൻ വേണ്ടി മൂന്നാമത്തെ സമീപനത്തിൻറെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ സ്യൂഡോ കൃറ്റികൾ താപനില മർദ്ദം എന്നിവ കണക്കുകൂട്ടുകയും പിന്നെ അത് കംപ്രസ്സബിലിറ്റി ചാർട്ടിൽ ഉപയോഗിച്ച് Zm കണ്ടെത്തുകയും ചെയ്യുന്നു ഒരു കണക്ക് സോൾവ് ചെയ്യുന്നതിൽ ഇതിൻറെ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇവിടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് 300K യിലും 15 MPa യിലും നിലനിൽക്കുന്ന ഒരു കിലോ മോൾ നൈട്രജനും 6 കിലോ മോൾ കാർബൺ ഡയോക്സൈഡും അടങ്ങിയ ഒരു മിശ്രിതത്തെ കുറിച്ചാണ് അതുകൊണ്ട് നമുക്ക് Tm 300 K Pm 15 MPa മൂന്ന് വ്യത്യസ്ത വഴികളും കണക്കിലെടുത്ത് നമുക്ക് ടാങ്കിൻറെ വ്യാപ്തി കണ്ടെത്തേണ്ടതുണ്ട് ഈ പ്രത്യേകത റൂളിനെ കേയ്സ്സ് റൂൾ Kay's rule എന്നാണ് വിളിക്കുന്നത് ഇതൊരു സ്യൂഡോ പോർ സമീപനമാണ് പൊതുവായി പറയുകയാണെങ്കിൽ ബ്രഹത്തായ റേഞ്ചിലുള്ള മർദവും താപനിലയും എല്ലാം 10 തിനുള്ളിൽ കൃത്യമായി കണ്ടു വരുന്നു ഇത് വിവിധ പ്രായോഗിക തലങ്ങളിലും സ്വീകാര്യമാണ് മൂന്നാമതായി അമഗ്യാക്റ്റ്സ്സ് സമീപനം ഉപയോഗിച്ച് കംപ്രസ്സബിലിറ്റി ഫാക്ടർ കണക്കുകൂട്ടാൻ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ സമീപനം പാലിക്കുവാൻ ശ്രമിക്കാം അതിനുമുമ്പ് നമുക്ക് N2 🡪 2 kmol CO2 🡪 6 kmol അപ്പോൾ ആകെ n 🡪 8 kmol അവിടെനിന്ന് അപ്പോൾ നിങ്ങൾക്ക് മോൾ ഫ്രാക്ഷൻസ് അറിയാം നമുക്കിപ്പോൾ ഐഡിയൽ വാതക സ്വഭാവത്തിലുള്ള ആദ്യത്തെ സമീപനത്തിലേക്ക് പോകാം ഐഡിയൽ വാതക സ്വഭാവത്തിൻറെ കാര്യത്തിൽ നമുക്ക് നേരിട്ട് തന്നെ വാതകങ്ങൾ ഐഡിയൽ ആണെന്ന് ഉണ്ടെങ്കിൽ മിശ്രിതത്തെയും അങ്ങനെ അനുമാനിക്കാൻ കഴിയും അങ്ങനെയാണെങ്കിൽ മിശ്രിതത്തിന് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഉപയോഗിക്കാവുന്നതാണ് അത് താഴെ പറയുന്നതു പോലെയാണ് അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടേണ്ടതുണ്ട് ഇപ്പോൾ ഈ സമീപനം ഏറെക്കുറെ ഉപയോഗപ്രദമാണ് കാരണം ഈ സമീപനം എടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഓരോ ഘടകത്തിൻറെയും മാസ്സ് അറിയേണ്ടതുണ്ട് കൂടാതെ Rm കണക്കു കൂട്ടേണ്ടതുണ്ട് R bar എന്ന് പറയുന്നത് സ്ഥായിയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് മോളാർ കമ്പോസിഷൻ അറിഞ്ഞിരിക്കുന്നത് ആണ് എപ്പോഴും മെച്ചം ഈ സമീപനം ആണ് എപ്പോഴും നല്ലത് അപ്പോൾ അവിടെ നിന്ന് മൂല്യങ്ങൾ എല്ലാം തന്നിട്ടുണ്ട് ഇക്വേഷൻ മാത്രം ചേർത്ത് കൊടുത്താൽ മതി

അപ്പോൾ ഇതാണു ഐഡിയൽ വാതക സ്വഭാവത്തിന് സമാന്തരമായ വ്യാപ്തി അടുത്തത് കേസ് റൂൾ ആണ് ഇത് സ്യൂഡോ ക്രിറ്റിക്കൽ അഥവാ സ്യൂഡോ പൊട്ടൻഷ്യൽ ഉപയോഗിച്ച് ഉള്ളതാണ് നമുക്ക് സ്യൂഡോ ക്രിറ്റിക്കൽ മൂല്യങ്ങൾ ഉപയോഗിക്കാം എന്ന് ഞാൻ പറയുകയാണ് ഈ മിശ്രിതത്തിൽ ഉള്ള സ്യൂഡോ ക്രിറ്റിക്കൽ മർദവും താപനിലയും നാം തിരിച്ചറിയേണ്ടതുണ്ട് അതിനായി ഓരോ ഘടക ത്തിൻറെ യും ക്രിറ്റിക്കൽ പോയിൻറ് മൂല്യങ്ങൾ നാം അറിയേണ്ടതുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഇതിനുമുൻപും ഉപയോഗിച്ചിട്ടുള്ള പട്ടിക ഇവിടെ നമ്മുടെ താല്പര്യം ഇവിടെയുള്ള കാർബൺഡയോക്സൈഡ് ലാണ് ആണ് അതുകൊണ്ട് ഈ പട്ടികയിൽ ഇത് കാർബൺഡയോക്സൈഡ് ആണ് അപ്പോൾ ഈ ക്രിറ്റിക്കൽ മൂല്യങ്ങൾ കാർബൺ ഡയോക്സൈഡിൻറെതാണ് അപ്പോൾ നൈട്രജൻറെ കാര്യമെന്താണ് ഇത് നൈട്രജൻറെതാണ് അപ്പോൾ ഇവയാണ് നൈട്രജൻറെ ക്രിറ്റിക്കൽ പോയിൻറ് മൂല്യങ്ങൾ അപ്പോൾ മിശ്രിതത്തിൻറെ സ്യൂഡോ ക്രിറ്റിക്കൽ മർദ്ദം താഴെ പറയുന്നതിനു സമമായിരിക്കും

അതുപോലെതന്നെ മിശ്രിതത്തിൻറെ ക്രിറ്റിക്കൽ താപനില അഥവാ സ്യൂഡോ ക്രിറ്റിക്കൽ താപനില എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് മിശ്രിതത്തിന്റെ TR PR എന്നിവ വിലയിരുത്തേണ്ടത് ആയിട്ടുണ്ട് അവിടെ അപ്പോൾ കുറച്ച താപനില വളരെ കൂടുതൽ അല്ല അതു പോലെ കുറച്ച മർദ്ദം അൽപം കൂടുതലാണ് ഇവിടെ നിന്നും നമുക്ക് കാണാം ഇത് തീർച്ചയായും ഒരു ഐഡിയൽ വാതക മിശ്രിതം അല്ല നമ്മൾ ആദ്യഭാഗം ഐഡിയൽ വാതക സ്വഭാവം കണക്കിലെടുത്തുകൊണ്ട് പരിഹരിച്ചു എങ്കിലും ഇവിടെ നമുക്ക് കാണാം TR എന്ന് പറയുന്നത് 2 നോട് അടുത്ത അല്ല PR എന്ന് പറയുന്നത് വളരെ കൂടുതലുമാണ്

പൊതുവായുള്ള കംപ്രസ്സബിലിറ്റി ചാർട്ടിൽ TR PR എന്നീ രണ്ട് മൂല്യങ്ങൾ ഇടുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് താഴെ പറയുന്നതു പോലെയാണ് അവിടെ നിന്നും നമുക്ക് കിട്ടുന്നു ഇത് മറ്റൊന്നുമല്ല ഐഡിയൽ വാതക സ്വഭാവം അനുസരിച്ച് കണക്കുകൂട്ടി എടുത്തതാണ് അപ്പോൾ ലഭിച്ച ഫലം താഴെ പറയുന്നതാണ് 625 𝑚3 മുൻപത്തേതിൽ നിന്നുള്ള വ്യത്യാസം ശ്രദ്ധിക്കുക മുൻപേ ലഭിച്ചതിന് ഏതാണ്ട് പകുതി ആണ് ഇപ്പോൾ കിട്ടുന്നത് അതിൻറെ കാരണം തന്നിരിക്കുന്ന സാഹചര്യങ്ങളിൽ വാതക മിശ്രിതങ്ങൾ ഐഡിയൽ വാതകമിശ്രിതത്തെ പോലെ അല്ല പെരുമാറുന്നത് അതുകൊണ്ട് ഐഡിയൽ ഗ്യാസ് സ്വഭാവം എപ്പോഴും നമുക്ക് തെറ്റുകൾ സംഭവിപ്പിക്കാനിടയുള്ളതായി കണക്കാക്കുന്നു ഇനി മൂന്നാം ഭാഗം ഇവിടെ നമ്മൾ വീണ്ടും ക്രിട്ടിക്കൽ പോയിൻറ് പ്രോപ്പർട്ടീസ് ഉപയോഗിക്കുന്നതായിരിക്കും പക്ഷേ അമഗ്യാസ്റ്റ് ലോ അടിസ്ഥാനമാക്കിയുള്ള സമീപനമാണു സ്വീകരിക്കുക ഇവിടെ ഓരോ ഘടകത്തിൻറെയും TR PR എന്നിവ കിട്ടേണ്ടതുണ്ട് അപ്പോൾ നൈട്രജൻറെ TR നമുക്ക് ആദ്യം കണക്കുകൂട്ടാം നൈട്രജന് അപ്പോൾ PR മൂല്യം നമുക്ക് കൃത്യമായി നൈട്രജൻ എന്ന ഘടകം കാണാൻ സാധിക്കും അതിൻറെ കുറച്ച താപനിലയും മർദ്ദവും അൽപം കൂടുതലാണെങ്കിലും അപ്പോൾ അത് ഒരു ഐഡിയൽ വാതകത്തെ പോലെ പെരുമാറുന്നില്ല ഇത് രണ്ടും കൂടി സംയോജിക്കുമ്പോൾ നമുക്ക് ഈ കംപ്രസ്സബിലിറ്റി ചാർട്ടിൽ നിന്നും നൈട്രജന് Z എന്ന് ലഭിക്കുന്നു അത് താഴെ പറയുന്നതിനു തുല്യമാണ് 02 ഇത് ഒന്നിന് വളരെ അടുത്താണ് അതുകൊണ്ട് ഇത് ഒരു ഐഡിയൽ വാതത്തിനു സമാനമായി പെരുമാറുന്നതായി നമുക്ക് കണക്കാക്കാം നമുക്ക് കാർബൺഡയോക്സൈഡ് കാര്യം പരിശോധിക്കാം അപ്പോൾ താപനിലയിലെ കാര്യം പറയുകയാണെങ്കിൽ അത് വളരെ അകലെയാണ് PR എന്ന് പറയുന്നത്

തീർച്ചയായും മർദ്ദവും വളരെ ഉയരുകയാണ് ഇത് കൂട്ടിച്ചേർക്കുമ്പോൾ 𝑍𝐶𝑂2 0 3 ഒരു മിശ്രിതത്തിൽ നൈട്രജൻ ഏതാണ്ട് ഐഡിയൽ വാതകം പോലെയാണ് പെരുമാറുന്നത് കാർബൺഡയോക്സൈഡ്ൻറെ ഭാഗമാണ് മറ്റുള്ളവയിൽനിന്ന് അകലെ നിൽക്കുന്നത് നമുക്ക് ഇപ്പോൾ മിശ്രിതത്തിൻറെ Z ഇങ്ങനെ കിട്ടുന്നു അവിടെനിന്നും 𝑉𝑚 𝑍𝑉𝑚 𝑖𝑑𝑒 𝑎𝑙 0 638 𝑚3 അപ്പോൾ ഒന്ന് താരതമ്യം ചെയ്തു നോക്കുക 638 എന്നതാണ് മൂല്യം ഇത് കേഏയ്സ് റൂൾ Kay's rule വഴി ലഭിച്ചതിന് വളരെ അടുത്താണ് പക്ഷേ ഐഡിയൽ വാതകത്തിൻറെതിൽ നിന്നും വളരെ അകലെയാണ് അപ്പോൾ രണ്ടാമത്തെ സമീപനത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് അത് തന്നെതാൻ ഒരു ഐഡിയൽ വാതകമായി പെരുമാറുന്നില്ല കാരണം അതിൻറെ കുറച്ച പ്രോപ്പർട്ടി മൂല്യങ്ങൾ സമാന്തരമായ സാഹചര്യങ്ങളിൽ നിന്നും വളരെ അകലെയാണ് അമഗ്യാറ്റ്സ്സ് ലോ ഉപയോഗിച്ചുള്ള രണ്ടാമത്തെ സമീപനത്തിൽ നമ്മൾ എന്താണ് ചെയ്തത് അവിടെ നമുക്ക് കൃത്യമായി കാണുവാൻ സാധിക്കും നൈട്രജൻൻറെ മർദ്ദം താപനില എന്നിവ അതിന് ഏതാണ്ട് ഒരു ഒരു ഐഡിയൽ വാതകസ്വഭാവം നൽകുന്നുണ്ട് എന്നിരുന്നാലും ഐഡിയൽ അവസ്ഥയ്ക്ക് വളരെ അകലെയാണ് കാർബൺഡയോക്സൈഡ് എന്നത് അതുകൊണ്ട് മിശ്രിതം ഐഡിയൽ വാതകസ്വഭാവം കാണിക്കുന്നില്ല അമഗ്യാസ്റ്റ്സ് സമീപനത്തിന് പകരം ഈ പ്രശ്നം നമുക്ക് ഡാൽട്ടൻസ് സമീപനം വഴി പരിഹരിക്കാം ഇതിനു സമാനമായ മൂല്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയേക്കാം അപ്പോൾ ഇന്നത്തെ ലക്ച്ചർ അവസാനിച്ചിരിക്കുന്നു നമ്മൾ ഇന്ന് വാതക മിശ്രിതങ്ങളെ പഠിക്കുവാൻ മാസ് മോൾ എന്നിവ അടിസ്ഥാനമാക്കിയുള്ള സമീപനം ചർച്ച ചെയ്തിരിക്കുന്നു

നമ്മൾ മിശ്രിതങ്ങളുടെ P v T സ്വഭാവത്തെ കുറിച്ച് സംസാരിച്ചു രണ്ട് നിയമങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി ഡാൽട്ടൺ ലോ ഓഫ് അടിടീവ് പ്രഷർ അമഗ്യാറ്റ്റ്റ്സ് ലോ ഓഫ് അടിടീവ് വോളിയം എന്നിവ ഐഡിയൽ വാതകത്തിൻറെയും യഥാർഥ വാതകത്തിൻറെയും കാര്യത്തിൽ എങ്ങനെ പ്രയോഗിക്കാം എന്നും നമ്മൾ കണ്ടു അടുത്ത ലെക്ചറിൽ ഒരുപക്ഷേ ഈ ആഴ്ചത്തെ അവസാനത്തെ ലക്ച്ചർ ആയിരിക്കും അതെന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ അപ്പോൾ വാതക മിശ്രിതത്തിന്റെ മറ്റ് സ്വഭാവങ്ങൾ കണക്കുകൂട്ടുന്നത് എങ്ങനെ പഠിപ്പിക്കാം ആദ്യം ഐഡിയൽ വാതക സ്വഭാവം കണക്കിലെടുത്ത് പിന്നീട് യഥാർത്ഥ വാതക സ്വഭാവം കണക്കിലെടുത്തും സംസാരിക്കുന്നത് ആയിരിക്കും അതുവരെ നിങ്ങൾ ഈ ലക്ചർ വായിച്ചു നോക്കുകയും ആവർത്തിച്ചു പഠിക്കുകയും ചെയ്യുക